ഹാലോ സെക്വർ സിസ്റ്റംസ് എൻജിനീയറിങ്ങ് എന്ന കോഴ്സിലെ ഈ വിവരണത്തിലേക്കു എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരു ഹീപ്പ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ കുറിച്ചു മറ്റൊരു വിവരണം കാണാം നമുക്ക് ഒരു ചെറിയ പ്രോഗ്രാം എടുക്കാം നിങ്ങൾക്കിത് വർച്വൽബോക്സിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യുകയും വർച്വൽബോക്സ് ഉപയോഗിച്ചു തന്നെ റൺ ചെയ്യുകയും ചെയ്യാം c എന്ന വളരെ ചെറിയ ഒരു പ്രോഗ്രാം ആണ് ഈ പ്രോഗ്രാം എന്താണ് ചെയ്യുന്നത് എന്ന് വച്ചാൽ നമ്മൾ രണ്ട് ക്യാരക്ടർ പോയിന്റർ X ഉം Y ഉം നിർവചിക്കുന്നു അതിനുശേഷം ആദ്യം X ന് 15 ബൈറ്റ്സ് മെമ്മറി അലൊക്കേറ്റ് എംഅലോക് ചെയ്യുന്നു പിന്നെ അത് ഫ്രീ ആക്കിയത്തിനു ശേഷം 13 ബൈറ്റ്സ് മെമ്മറി Y ക്ക് അലൊക്കേറ്റ് ചെയ്ത് അതും ഫ്രീ ആക്കുന്നു ഇത് വളരെ ലളിതമായ ഒരു പ്രോഗ്രാം ആണ് നമുക്ക് നോക്കാം ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ഇവിടെ നമ്മൾ ഈ രണ്ടു പ്രിൻറ്എഫ് സ്റ്റേറ്റ്മെൻറ്സ് ഉപയോഗിച്ചിരിക്കുന്നത് X ൻറെയും Y യുടെയും അഡ്രസ്സ് പ്രിൻറ് ചെയ്യുന്നതിനാണ് അപ്പോൾ നമ്മൾ മുന്പത്തെപ്പോലെ എല്ലാം ക്ലീൻ ചെയ്ത് ആദ്യം മുതൽ ഈ പ്രോഗ്രാം റൺ ചെയ്താൽ കാണുന്നതെന്താണെന്നു വച്ചാൽ കുറച്ചു അതിശയം ഉണ്ടാകാം X ൻറെയും Y യുടെയും അഡ്രസ്സ് ഒന്ന് തന്നെ ആണ് അതായത് X ൽ ഉള്ള ഡാറ്റ നമുക്ക് Y ഉപയോഗിച്ചും അതുപോലെ തന്നെ തിരിച്ചും ആക്സസ് ചെയ്യാവുന്നതാണ് പിട്ടിഎംഅലോക് ഇന്റെർണലി എല്ലാ ഫ്രീ ചങ്ക് ഡാറ്റയുടെയും ഒരു ലിസ്റ്റ് സൂക്ഷിക്കുന്നതാണ് X നും Y ക്കും ഇങ്ങനെ ഒരേ അഡ്രസ് ലഭിക്കാൻ കാരണം അതായത് ആദ്യം നമ്മൾ 15 ബൈറ്റ്സ് X ന് എംഅലോക് ചെയ്യുമ്പോൾ ഹീപ്പിൽ X ന് തക്കതായി ഒരു ഡാറ്റ ചങ്ക് വരുന്നു പിന്നെ നമ്മൾ X ഫ്രീ ആക്കുമ്പോൾ ഈ ചങ്ക് ഫ്രീ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഭാഗമാകുന്നു ഇത് ഈ പ്രോഗ്രാമിലെ ആദ്യ എംഅലോക് പ്രവർത്തനം ആകയാൽ ഈ സമയത്തു ഈ ലിസ്റ്റിൽ ആകെ ഒരു ചങ്ക് മാത്രമേ ഉണ്ടാകുകയുള്ളൂ അത് X ആണ് അതിനുശേഷം വീണ്ടും എംഅലോക് വിളിക്കുമ്പോൾ പിട്ടിഎംഅലോക് ആദ്യം ഈയൊരു ആവശ്യം നിറവേറ്റാൻ തക്കതായ ഒരു മെമ്മറി ചങ്ക് ഫ്രീ ലിങ്ക്ഡ് ലിസ്റ്റിൽ ലഭ്യമാണോന്ന് നോക്കും ഇപ്പോൾ ഈ പ്രത്യേക സാഹചര്യത്തിൽ നമുക്കൊരു ലിസ്റ്റും ഉണ്ട് അതിൽ X ഫ്രീ ആക്കിയപ്പോൾ വന്ന ചങ്കും ഉണ്ട് അതുകൊണ്ട് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്നുവച്ചാൽ X നും Y ക്കും ഒരേ മെമ്മറി ചങ്ക് കിട്ടുന്നു തദ്വാരാ ഒരേ അഡ്രസ്സ് ഇതാണ് X നും Y ക്കും ഒരേ അഡ്രസ്സ് ലഭിക്കുവാനുള്ള കാരണം അതായത് റിസൾട്ട് എന്നത് എംഅലോക് ആവശ്യപെടുന്ന മെമ്മറി ചങ്കിൻറെ വലിപ്പത്തിനനുസരിച്ച് ഓരോ സാഹചര്യത്തിലും വ്യത്യസ്ഥമായിരിക്കും നമ്മുടെ ഈ സാഹചര്യത്തിൽ 15 ഉം 13 ഉം എന്നത് ആപേക്ഷികമായി അടുത്തടുത്ത് ആയിരുന്നു അതുകൊണ്ട് തന്നെ അത് ഒരേ ലിസ്റ്റിൽ വന്നു ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ കുറച്ചുകൂടി വലിയ ചങ്ക് ആണ് അലൊക്കേറ്റ് ചെയ്തിരുന്നതെങ്കിൽ അതായതു ഒരു 32 ബൈറ്റ്സ് അപ്പോൾ എംഅലോകിന് X ൽ നിന്ന് ഫ്രീ ആക്കിയ മെമ്മറി ചങ്ക് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കില്ല വലിയ ഒരു ചങ്ക് അലൊക്കേറ്റ് ചെയ്യേണ്ടതുണ്ട് അതായത് 15 നു ശേഷം എംഅലോക് 32 ബൈറ്റ്സ് ആണ് ആവശ്യപെട്ടിരുന്നതെങ്കിൽ X നും Y ക്കും വ്യത്യസ്താമായ അഡ്രസ്സ് ലഭിച്ചേനെ അപ്പോൾ നമുക്കതൊന്നു പരീക്ഷിച്ചുറപ്പിക്കാം നോക്കൂ നമ്മളിവിടെ എന്താണ് കാണുന്നതെന്നുവച്ചാൽ X നും Y ക്കും വ്യത്യസ്തമായ അഡ്രസ്സ് കിട്ടിയിരിക്കുന്നു ഇതിൽ നിന്നു അവയ്ക്ക് വെവ്വേറെ മെമ്മറി ചങ്ക് ആണ് അലൊക്കേറ്റ് ചെയ്യപ്പെട്ടത് എന്ന് മനസിലാക്കാം അതുപോലെ തന്നെ നമുക്ക് മൂന്നാമതൊരു പോയിന്റർ Z ഉണ്ടായിരുന്നെങ്കിൽ അത് ഒരു 15 ബൈറ്റ്സ് അലോക്കേറ്റ് ചെയ്യാൻ ആവശ്യപെട്ടിരുന്നെങ്കിൽ X നും Z നും ഒരേ മെമ്മറി ചങ്ക് തന്നെ കിട്ടിയേനെ അതുകൊണ്ടു തന്നെ X നും Z നും ഒരേ അഡ്രസ്സും എന്നാൽ Y ക്ക് വ്യത്യസ്താമായ അഡ്രസ്സും ലഭിച്ചേനെ അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്തുനോക്കാം ഇതാണ് Z അതേ X നും Z നും ഒരേ അഡ്രസ്സ് തന്നെ കിട്ടി X ഫ്രീ ആക്കിയപ്പോൾ ശേഷിച്ച മെമ്മറി ചങ്ക് തന്നെ Z ന് അലോക്കേറ്റ് ചെയ്യപ്പെട്ടു എന്തുകൊണ്ടെന്നാൽ അതായിരുന്നു X ന് ഏറ്റവും നന്നായി യോജിച്ചത് എന്നാൽ Y ക്ക് കിട്ടിയത് വ്യത്യസ്താമായ വേറൊരു മെമ്മറി ചങ്ക് ആണ്